നമസ്കാരം അതിനാൽ ഇന്ന് നമ്മൾ നമ്മുടെ കോഴ്സിൻറെ അവസാന ഭാഗത്തേക്കാണ് വരുന്നത് ഇന്ന് നമ്മൾ ഫോഴ്സ് കറണ്ട് സമധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യും തുടർന്ന് സമധർമ്മ സിസ്റ്റം പരിഹരിക്കാൻ ശ്രമിക്കും കൂടാതെ സമധർമ്മ സിസ്റ്റത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് സഹായത്തോടെ എങ്ങനെ തുല്യമായി പ്രതിനിധീകരിക്കാമെന്ന് നോക്കാം അതിനാൽ ഇന്നത്തെ ചർച്ച ആരംഭിക്കാം ഫോഴ്സ് കറണ്ട് സമധർമ്മം എന്താണെന്ന് ആദ്യം നമ്മൾ കാണും അതിനാൽ ഫോഴ്സ് കറണ്ട് സമധർമ്മം ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ ഗണിത സമവാക്യത്തെ വൈദ്യുത സിസ്റ്റത്തിൻറെ നോഡൽ സമവാക്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നു ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇനിപ്പറയുന്ന വൈദ്യുത സംവിധാനം പരിഗണിക്കുക ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നിലവിലെ ഉറവിടം റെസിസ്റ്റർ ഇൻഡക്റ്റർ കപ്പാസിറ്റർresistor inductor capacitor എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ എല്ലാം സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കറണ്ട് എന്ന് എഴുതാൻ കഴിയുന്ന നോഡൽ സമവാക്യം ഇപ്പോൾ നമുക്ക് എന്നതിന് പകരം എന്ന് പറയുകയോ ചെയ്താൽ അത് കാന്തിക പ്രവാഹമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക

ഇപ്പോൾ നിങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിനായുള്ള ഫോഴ്സ് ബാലൻസ് സമവാക്യം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്നത് ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻറെയും സമാനമായ അളവ് നമുക്ക് ലഭിക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും കണ്ടാൽ ബലത്തിനും വൈദ്യുതധാരയ്ക്കും എം എന്ന അനലോഗ് ഉണ്ടെന്ന് പറയാം അത് പിണ്ഡം C ക്ക് സമാനമാണ് B ന് സമാനമാണ് K ന് സമാനമാണ് x സമാനമാണ് നിങ്ങൾക്ക് എന്നത് വേഗത v ആയ ന് സമാനമാണ് അത് വോൾട്ടേജ് V അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇതാണ് നമ്മൾ പട്ടിക രൂപത്തിൽ സമാഹരിച്ചത് ഫോഴ്സ് കറന്റിനോട് സാമ്യമുള്ളതാണ് C എന്നിവയ്ക്ക് സമാനമായ പിണ്ഡം ഘർഷണ ഗുണകംB R ൻറെ റേസിപ്രോക്കൽ 1R ന് സമാനമാണ് സ്പ്രിംഗ് സ്ഥിരാങ്കം K എന്നത് ഇൻഡക്റ്റൻസ് ൻറെ റേസിപ്രോക്കൽ 1L സ്ഥാനചലനം x കാന്തിക പ്രവാഹത്തിന് സമാനമാണ് വേഗത v വോൾട്ടേജ് V ന് സമാനമാണ് ഇപ്പോൾ ടോർക്ക് കറണ്ട് സമധർമ്മം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അതേ ആശയം അടിസ്ഥാനപരമായി റൊട്ടേഷൻ മെക്കാനിക്കൽ സിസ്റ്റത്തിനും ബാധകമാണ് ടോർക്ക് കറണ്ട് സമധർമ്മം പ്രയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റൊട്ടേഷൻ മെക്കാനിക്കൽ സിസ്റ്റത്തിനുള്ള ഗണിത സമവാക്യം ഇലക്ട്രിക്കൽ സർക്യൂട്ടിനായുള്ള നോഡൽ സമവാക്യം ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്താൽ ടോർക്ക് നിലവിലെ കറണ്ട് i ക്ക് സമാനമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും മൊമെന്റ് ഓഫ് ഇനേർഷിയ J കപ്പാസിറ്റൻസിന് സമാനമാണ് ഭ്രമണ ഘർഷണ കോഫിഫിഷ്യന്റ് ബി പ്രതിരോധത്തിൻറെ റേസിപ്രോക്കൽ 1 R സമാനമാണ് ടോർഷണൽ സ്പ്രിംഗ് സ്ഥിരാങ്കം K ഇൻഡക്റ്റൻസിൻറെ റേസിപ്രോക്കൽ ആയ 1 L സമാനമാണെന്ന് കോണീയ സ്ഥാനചലനം കാന്തിക പ്രവാഹത്തിന് സമാനമാണ് കോണീയ വേഗത ഇപ്പോൾ വോൾട്ടേജ് V ന് സമാനമാണ് അതിനാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ തമ്മിലുള്ള സാമ്യതയെ സ്ഥിരപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഫോഴ്സ് വോൾട്ടേജ് സമധർമ്മമായി ശ്രേണിയിലുള്ള ഘടകങ്ങൾ സമാന്തരമായി ഫോഴ്സ് കറണ്ട് അനലോഗ് നെറ്റ്വർക്കിൽ കണക്റ്റുചെയ്യുന്നു അതുപോലെ ഫോഴ്സ് വോൾട്ടേജ് സമധർമത്തിൽ സമാന്തരമായി വരുന്ന ഘടകങ്ങൾ ഫോഴ്സ് കറണ്ട് അനലോഗ് സിസ്റ്റത്തിൽ ശ്രേണിയിൽ കണക്റ്റുചെയ്യുന്നു ഇപ്പോൾ സമാനമായ സിസ്റ്റങ്ങളിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് നമുക്ക് പിന്തുടരാവുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് മെക്കാനിക്കൽ സിസ്റ്റത്തിലെ പ്രയോഗിച്ച ബലപ്രയോഗം മൂലം എല്ലാ സ്ഥാനചലനങ്ങളും തിരിച്ചറിയുന്നത് സ്പ്രിംഗ് അല്ലെങ്കിൽ ഘർഷണം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ചലിക്കുന്ന രണ്ട് ഉപരിതലങ്ങൾക്കിടയിൽ പ്രയോഗിക്കുന്ന ത് സ്ഥാന ചലനത്തിൻറെ മാറ്റത്തിന് കാരണമാകും ഇപ്പോൾ നോഡ് അടിസ്ഥാനത്തിൽ തുല്യമായ മെക്കാനിക്കൽ സിസ്റ്റം വരയ്ക്കുക അതിനാൽ നിങ്ങൾ മെക്കാനിക്കൽ സിസ്റ്റം പുനർ ക്രമീകരിക്കുകയും നിങ്ങൾ തിരിച്ചറിയുന്ന നോഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി വീണ്ടും വരയ്ക്കുകയും ആണെങ്കിൽ നോഡുകൾ മറ്റൊന്നുമല്ല മറിച്ച് നിങ്ങൾ വിവിധ സ്ഥാനചലനങ്ങൾ കാണുകയും അതിൻറെ അടിസ്ഥാനത്തിൽ നോഡുകൾ നിർവചിക്കുകയും ചെയ്യും ഒരേ സ്ഥാനചലനത്തിന് കീഴിലുള്ള ഘടകങ്ങൾ ആ നോഡിന് കീഴിൽ സമാന്തരമായി ബന്ധിപ്പിക്കും ഓരോ സ്ഥാനചലനത്തെയും പ്രത്യേക നോഡ് പ്രതിനിധീകരിക്കുന്നു സ്ഥാനചലനത്തിൽ മാറ്റം വരുത്തുന്ന ഘടകം ഘർഷണം അല്ലെങ്കിൽ സ്പ്രിങ് എന്നിവ രണ്ട് നോഡുകൾക്കിടയിലായിരിക്കും അപ്പോൾ നിങ്ങൾ സന്തുലിത സമവാക്യങ്ങൾ എഴുതുന്നു ഓരോ നോഡിലും നോഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളുടെയും ബീജഗണിത തുക 0 ആയിരിക്കും തുടർന്ന് നമ്മൾ ഫോഴ്സ് വോൾട്ടേജ് സമധർമ്മം ഉപയോഗിക്കുകയും പകരമുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ സമാനമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉം ഈ ക്ലാസ്സിൽ ഉം ചർച്ച ചെയ്ത അനലോഗ്സ് ഘടകങ്ങൾ ബലം വോൾട്ടേജിന് സമാനമാണ് എം ഇൻഡക്റ്റൻസിന് സമാനമാണ് വിസ്കോസ് ഘർഷണ ഗുണകം R ന് സമാനമാണ് സ്പ്രിംഗ് സ്ഥിരാങ്കം 1 C ക്ക് സമാനമാണ് x q ന് സമാനമാണ് dxdt i ക്ക് സമാനമാണ് ഇപ്പോൾ ലൂപ്പ് രീതി ഉപയോഗിച്ച് സമവാക്യങ്ങൾ അനുകരിക്കുക സ്ഥാനചലനങ്ങളുടെ എണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ലൂപ്പ് വൈദ്യുതധാരകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും നിങ്ങൾ ഫോഴ്സ് കറണ്ട് സമധർമ്മം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമാനമായ ശരിയായ അളവുകൾ ഉപയോഗിക്കും ഇത് നമ്മൾ ചർച്ചചെയ്തത് ഫോഴ്സ് i ക്ക് സമാനമാണ് M C ക്ക് സമാനമാണ് B 1 R ക്ക് സമാനമാണ് K 1 L ക്ക് സമാനമാണ് x ന് സമാനമാണ് dx dt വോൾട്ടേജ് V ക്ക് സമാനമാണ് ഇപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റത്തെ രണ്ട് തുല്യമായ ഇലക്ട്രിക്കൽ സർക്യൂട്ടായി പരിവർത്തനം ചെയ്യുന്നു തുടർന്ന് അത് പരിഹരിക്കും ഫോഴ്സ് കറണ്ട് സമധർമത്തിന്റെ കാര്യത്തിൽ സ്ഥാനചലനങ്ങളുടെ എണ്ണം നോഡ് വോൾട്ടേജുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിൻറെ സഹായത്തോടെ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഈ ഉദാഹരണത്തിൽ തന്നിരിക്കുന്ന സർക്യൂട്ടിന് തുല്യമായ മെക്കാനിക്കൽ സിസ്റ്റം വരയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിനായി സന്തുലിത സമവാക്യങ്ങൾ എഴുതി ഫോഴ്സ് വോൾട്ടേജ് ഉം ഫോഴ്സ് വൈദ്യുത സമധർമ്മം വഴി ഇലക്ട്രിക്കൽ സർക്യൂട്ട് സമധർമ്മം നേടുന്നു അതിനാൽ ഈ കണക്ക് കണ്ടാൽ നിങ്ങൾക്കു ഒരു ഡാഷ് പോട്ട് ഉണ്ട് വിസ്കോസ് കോഫിഫിഷ്യന്റ് ബി 1 ഉണ്ട് അത് എം 1 ലേക്ക് ബന്ധിപ്പിക്കുകയും ഫോഴ്സ് പ്രയോഗിക്കുകയും ചെയ്യുന്നു കൂടാതെ എം 1 സ്പ്രിംഗ് കെ യുമായി എം 2 ബി 2 എന്നിവയിലൂടെ മറ്റൊരു വിസ്കോസ് ഘർഷണ ഗുണകമായും ബന്ധിപ്പിച്ചിരിക്കുന്നു M2 ന് എപ്പോൾ വേണമെങ്കിലും x2 ൻറെ സ്ഥാനചലനം ഉണ്ടെന്നും M1 ന് ഏത് സമയത്തും x1 ൻറെ സ്ഥാനചലനം സംഭവിക്കുമെന്നും നമ്മൾ പറയുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട് അതിനെ തുല്യമായ അനലോഗ് ഇലക്ട്രിക്കൽ സിസ്റ്റമാക്കി മാറ്റേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും M1 ൻറെ സ്ഥാനചലനം x1 ആണ് B1 M1 നും ഫിക്സഡ് സപ്പോർട്ട് നും ഇടയിലും മാത്രമല്ല അത് ൻറെ സാന്നിധ്യത്തിലും ആണ് രണ്ട് ചലിക്കുന്ന പോയിന്റുകൾക്കിടയിലുള്ളതിനാൽ ബി 2 നു സ്ഥാനചലനം ഉണ്ടാകുന്നു x1 ൽ നിന്ന് x2 ലേക്ക് കൂടാതെ M2 ഉം K ഉം എന്ത് എന്നാൽ കെ പിണ്ഡത്തി നും ഫിക്സഡ് സപ്പോർട്ട് ഇടയിലായതിനാൽ അതിനാൽ ബലം ഇപ്പോൾ x1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു എക്സ് 1 ഡിസ്പ്ലേസ്മെന്റിൻറെ സ്വാധീനത്തിലുള്ള രണ്ട് ഘടകങ്ങളാണ് എം 1 ബി 1 അതിനാൽ നമ്മൾ എന്തുചെയ്യും അവ രണ്ടും സമാന്തരമായി ബന്ധിപ്പിക്കും അതിനാൽ M1 ഇപ്പോൾ B1 ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ 3 ഘടകങ്ങളും ഇപ്പോൾ നോഡ് x1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ x2 ൻറെ കാര്യത്തിൽ ബി 2 സ്ഥാനചലനം x1 ൽ നിന്ന് x2 ലേക്ക് മാറ്റുന്നു അതിനാൽ സ്ഥാനചലനം x1 ൽ നിന്ന് x2 ലേക്ക് മാറ്റുന്നതിന് ബി 2 ഉത്തരവാദിയായതിനാൽ നമ്മൾ ബി 2 നെ x1 നും x2 നും ഇടയിൽ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ M2 K എന്നിവ നേരിട്ട് x2 ൻറെ സ്ഥാന ചലനത്തിൻറെ സ്വാധീനത്തിലാണ് കാരണം കെ നേരിട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ നിശ്ചിത ഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് കെ വഴി നിങ്ങൾ M2 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് M2 ൽ സ്ഥാനചലനം ലഭിക്കുമ്പോൾ M2 K എന്നിവ നേരിട്ട് x2 സ്ഥാനചലനത്തിൻറെ സ്വാധീനത്തിലായിരിക്കും അതിനാൽ x2 ന് നമ്മൾ സമാന്തരമായി M2 K എന്നിവ ബന്ധിപ്പിക്കും ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ കണ്ട ഈ മെക്കാനിക്കൽ സിസ്റ്റം മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ തുല്യമായ നോഡ് രൂപകം ആയി പരിവർത്തനം ചെയ്യപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നോഡ് 1 2 എന്നിവയിൽ നിങ്ങളുടെ ശക്തികളുടെ ആകെത്തുക 0 ന് തുല്യമായിരിക്കണമെന്ന് പറയാം അതിനാൽ നോഡ് 1 ന് നമുക്ക് അവയെ ലാപ്ലേസ് ഡൊമെയ്നിലേക്ക് എഴുതാം അതിനാൽ നോഡ് 1 ൽ നോഡ് 2 ൽ അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോഡ് 1 നോഡ് 2 എന്നിവയ്ക്കായി 2 മെക്കാനിക്കൽ സമവാക്യങ്ങൾ ലഭിച്ചു ഇപ്പോൾ നിങ്ങൾ ഫോഴ്സ് വോൾട്ടേജ് സമധർമ്മം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളും അനുബന്ധ അനലോഗ് വോൾട്ടേജ് സമവാക്യങ്ങളിൽ എഴുതാം അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ നമുക്ക് മാറ്റിസ്ഥാപിക്കാം അതിനാൽ അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തുല്യമായ ഇലക്ട്രിക്കൽ സർക്യൂട്ട് സൃഷ്ടിക്കാൻ കഴിയും അത് ഉദാഹരണത്തിൽ നൽകിയിരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റത്തെ പ്രതിനിധീകരിക്കും ഇപ്പോൾ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ഫോഴ്സ് കറണ്ട് സമധർമ്മം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും വോൾട്ടേജ് സമധർമത്തിനായി നിങ്ങൾക്ക് സമവാക്യം എഴുതുന്നതിനുപകരം നിലവിലെ സമധർമത്തിനായി സമവാക്യം എഴുതാം അപ്പോൾ നമുക്ക് എഴുതാം അതിനാൽ മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട രണ്ട് സമാന സമവാക്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു ഇപ്പോൾ നമുക്ക് മാറ്റിസ്ഥാപിക്കാം അതിനാൽ മുകളിലുള്ള സമവാക്യങ്ങളിൽ ഇവ രണ്ടും ചേർത്താൽ നിങ്ങൾക്ക് ലളിതമാക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് നോഡ് സമവാക്യങ്ങൾ ലഭിച്ചു അടിസ്ഥാനപരമായി ഈ പ്രത്യേക സർക്യൂട്ടിൻറെ സഹായത്തോടെ പ്രതിനിധീകരിക്കാം അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സി 1 ആർ 1 എന്നിവ സമാന്തരമാണ് അതിനാൽ സമാന്തരമായി C1 R1 നിങ്ങൾക്ക് വൈദ്യുത സ്രോതസ്സ് I1 ഉണ്ട് അത് ഇപ്പോൾ V1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു V1 നും V2 നും ഇടയിൽ നിങ്ങൾക്ക് 1 R2 എന്ന പ്രതിരോധമുണ്ട് അതിനാൽ നിങ്ങൾ ഇത് 1 B2 ഉപയോഗിച്ച് പ്രതിനിധീകരിക്കും ഇത് നിങ്ങൾക്ക് മെക്കാനിക്കൽ സിസ്റ്റവുമായി താരതമ്യം ചെയ്യാൻ കഴിയും അതുപോലെ രണ്ടാമത്തെ നോഡ് സി 2 എൽ എന്നിവയ്ക്ക് സമാന്തരമാണ് ഇവ രണ്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് നിലവിലെ ഉറവിടമായി വോൾട്ടേജ് ഉറവിടത്തിനുപകരം വൈദ്യുത സ്രോതസ്സ് കൊടുത്താൽ മെക്കാനിക്കൽ സിസ്റ്റത്തിന് സമാനമായ സർക്യൂട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ലളിതമായ ലിക്വിഡ് ലെവൽ സിസ്റ്റത്തിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെവലപ്മെൻറ് നമുക്ക് നോക്കാം അവിടെ നിങ്ങൾക്ക് ടാങ്കിനുള്ളിൽ പോകുന്ന സ്ഥിരമായ സ്റ്റേറ്റ് ഫ്ലോ ക്യൂ ഉണ്ട് വെള്ളം ഒഴുകുന്നു കൂടാതെ ഇൻഫ്ലോ നിരക്കിൽ അതിൻറെ സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യത്തിൽ നിന്ന് ചെറിയ മാറ്റമുണ്ടെന്ന് കരുതുക ഇത് ഉച്ചസ്ഥാനത്തിൽ നിന്ന് ചെറിയ മാറ്റത്തിന് കാരണമാകും അതിനാൽ നിങ്ങൾ വരവ് നിരക്ക് മാറ്റുമ്പോൾ ഹെഡ് വർദ്ധിക്കും അതിനാൽ ഇപ്പോൾ ഹെഡ് ഉദാഹരണത്തിന് ഇപ്പോൾ ഹെഡ് ആണെന്ന് പറയുന്നു ഒഴുക്കിൻറെ എന്തെങ്കിലും മാറ്റത്തിന് മുമ്പ് സ്ഥിരതയുള്ള ഹെഡ് ആണെന്ന് പറയാം ഇപ്പോൾ ടാങ്കിൻറെ ശേഷി വർദ്ധിക്കുമെന്ന് ഇത് കാണിക്കും കാരണം ഇപ്പോൾ ജലത്തിൻറെ ഒഴുക്ക് മാറി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഔട്ട്ലെറ്റിന് കുറച്ച് പ്രതിരോധം ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഇൻഫ്ലോ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ചെറിയ ഔട്ട്ഫ്ലോ റേറ്റും തുല്യമായി മാറ്റും അതിനാൽ ഇത് q0 ആണെങ്കിൽ അതിനാൽ ഇൻഫ്ലോ ലെ മാറ്റവും ഔട്ട്ഫ്ലോ മാറ്റവും ടാങ്കിൻറെ കപ്പാസിറ്റൻസിൽ മാറ്റത്തിന് കാരണമാകുന്നു ഇപ്പോൾ ലിക്വിഡ് ലെവൽ സിസ്റ്റത്തിൻറെ കപ്പാസിറ്റൻസിൻറെ സമവാക്യത്തിൽ നിന്ന് ടാങ്കിൻറെ കപ്പാസിറ്റൻസ് ലേക്ക് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇപ്പോൾ നിർവചനത്തിൽ നിന്ന് എന്താണ് പ്രതിരോധം അത് ടാങ്കിലെ ലെവൽ വ്യത്യാസത്തിൽ മാറ്റം വരുത്തുകയും സെക്കൻഡിൽ മീറ്റർ ക്യൂബിലുള്ള ഫ്ലോ റേറ്റിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു സി യുടെ മൂല്യം എന്താണ് സി എന്നത് ടാങ്കിൽ സംഭരിച്ചിരിക്കുന്ന ദ്രാവകത്തിലെ ഹരണം ഉച്ചസ്ഥാനത്തിൻറെ മീറ്ററിലെ മാറ്റം ഇപ്പോൾ ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ കൈയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ന് എഴുതാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എഴുതാൻ കഴിയുകഅല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ലാപ്ലേസ് പരിവർത്തനം എടുത്താൽ അത് ഇപ്പോൾ നിങ്ങൾ പ്രാരംഭ വ്യവസ്ഥകൾ അവഗണിക്കുകയും ട്രാൻസ്ഫർ ഫങ്ക്ഷൻ കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനാൽ ഇൻപുട്ടായും h ഔട്ട്പുട്ടായും സിസ്റ്റത്തിനായുള്ള ട്രാൻസ്ഫർ ഫങ്ക്ഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ മുമ്പത്തെ സമവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻറെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ h എന്നതിനുപകരം നിങ്ങൾ ഔട്ട്പുട്ടായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആണെന്ന് അറിയാം അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ അതിനാൽ ഈ രീതിയിൽ ലിക്വിഡ് ലെവൽ സിസ്റ്റത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷനുകളുടെ സഹായത്തോടെ തുല്യമായി പ്രതിനിധീകരിക്കാം അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങളുടെ ഇന്നത്തെ അദ്ധ്യായം അവസാനിപ്പിക്കുകയാണ് പാഠ്യക്രമത്തിൻറെ അവസാന ഭാഗത്തു നമ്മൾ എത്തി നിൽക്കുകയാണ് അതിനാൽ ഈ പാഠ്യക്രമത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും വായിക്കാം അതിനാൽ അടിസ്ഥാനപരമായി ആഴ്ച 1 മുതൽ നമ്മൾ ചർച്ച ആരംഭിച്ചു അവിടെ അടിസ്ഥാന സർക്യൂട്ട് ഘടകങ്ങളെയും തരംഗരൂപങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു അവിടെ പവർ പി യുടെ മൂല്യം കണക്കാക്കാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് മെഷ് നോഡൽ വിശകലനം എന്നിവ പഠിക്കുകയും തുടർന്ന് വിവിധ നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു രണ്ടാം ആഴ്ചയിൽ തെവെനിൻസ് നോർട്ടൺസ് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു സൂപ്പർ പൊസിഷൻ സിദ്ധാന്തവും മറ്റും ചർച്ച ചെയ്തു അതിനാൽ ഈ രണ്ടാഴ്ച നമ്മൾ നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചർച്ച ചെയ്തത് അഞ്ചാമത്തെ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ഓർഡറിനെയും രണ്ടാമത്തെ ഓർഡറിനെയും നെറ്റ്വർക്കുകളെയും കുറിച്ച് ചർച്ചചെയ്തു ആറാം ആഴ്ച നമ്മൾ ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ചും അതിൻറെ ആപ്ലിക്കേഷനെക്കുറിച്ചും ചർച്ചചെയ്തു തുടർന്ന് ആറാം ആഴ്ചയിൽ നമ്മൾ നേടിയ അറിവ് ഉപയോഗിക്കുകയും സർക്യൂട്ട് വിശകലനത്തിൽ ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ചുള്ള അറിവ് പ്രയോഗിക്കുകയും ചെയ്തു ഏഴാമത്തെ ആഴ്ചയിൽ ലാപ്ലേസ് പരിവർത്തനം ചർച്ചചെയ്തു എട്ടാമത്തെ ആഴ്ചയിൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്തു 9 10 ആഴ്ചകളിൽ നമ്മൾ എസി സർക്യൂട്ട് വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ ഡിസി സർക്യൂട്ടിൻറെ കാര്യത്തിൽ ചർച്ച ചെയ്ത നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങൾ എസി സർക്യൂട്ട് കണക്കിലെടുത്ത് നമ്മൾ ചർച്ചചെയ്തു കൂടാതെ കുറച്ച് ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചു അതിനാൽ എസി സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയും 11 ാം ആഴ്ചയിൽ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തെക്കുറിച്ച് ചർച്ചചെയ്തു കൂടാതെ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തിൻറെ സഹായത്തോടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചു കൂടാതെ വിവിധ മെക്കാനിക്കൽ അളവുകൾ വൈദ്യുത അളവിലേക്ക് ബന്ധം സ്ഥിരപ്പെടുത്തുന്ന അനലോഗ് സിസ്റ്റത്തെക്കുറിച്ച് ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിച്ചുവെന്നും അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട മതിയായ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ പരീക്ഷകളിലും നിങ്ങൾ മികച്ച വിജയം നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നന്ദി